ഇപ്പോൾ നമ്മൾ Δ സ്രോതസ്സിന്റെ ഇക്വലന്റ് Y സ്രോതസ്സിലേക്കുള്ള പരിവർത്തനം കണ്ടു അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് Vab Vbc Vca എന്നിട്ട് Δ രൂപീകരിക്കുന്നു Vbc ഈ ദിശയിലും Vca ദിശയിലുമാണ് പിന്നീട് ഇക്വലന്റ് Y ഉണ്ടാക്കുന്നു ഈ പോയന്റിനെ n എന്ന് രേഖപ്പെടുത്തുന്നു ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്തെന്നാൽ ഇവയുടെ വോൾട്ടേജിന്റെ ആംഗിളിന്റെ വ്യത്യാസം 120o ആയിരിക്കും ഇതെല്ലം നമ്മൾ കണ്ടതാണ് Van VL √ 3 Vp √ √3 ആംഗിൾ 30o Δ യുടെ കേസിൽ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് ആണ് സമാനമായി VAN Ia ZY VL √ 3 ആംഗിൾ 30o Vp √ 3 ആംഗിൾ 30o അതേ പോലെ VBN നും VCN നും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് Δ സ്രോതസ്സിന്റെ ഇക്വലന്റ് Y സ്രോതസ്സിലേക്കുള്ള പരിവർത്തനം ഇനി നമുക്ക് അടുത്തതായി ഒരു ചെറിയ ഉദാഹരണം എടുക്കാം ഫേസ് ഇമ്പിടൻസ് Ω ഓട് കൂടിയ ഒരു സന്തുലിതമായ Y കണക്റ്റഡ് ലോഡ് 210 volt ലൈൻ വോൾട്ടേജുള്ള സന്തുലിതവും പോസിറ്റീവ് സീക്വൻസുള്ളതുമായ ഒരു Δ കണക്റ്റഡ് സ്രോതസ്സിനാൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഫേസ് കറണ്ട് കണക്കാക്കുക Vab എന്നതിനെ റഫറൻസാക്കി ഉപയോഗിക്കുക ZY തന്നിരിക്കുന്നത് 40 j 25 47 17 ആംഗിൾ 32o Ω ആണ് Vab എന്നതാണ് റഫറൻസ് വോൾട്ടേജ് ഇവിടെ ഇത് ഒരു ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് ഞാൻ ലൈൻ വോൾട്ടേജ് എന്ന് പറയുമ്പോളെല്ലാം ഉദ്ദേശിക്കുന്നത് ലൈൻ ട്ടു ലൈൻ വോൾട്ടേജിനെയാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഫേസ് ടു ന്യൂട്രലിനെയും അതിനാൽ Vab 210 ആംഗിൾ 0o ഇതാണ് റഫറൻസായിട്ട് എടുക്കേണ്ടത് അപ്പോൾ Ia ആംഗിൾ - 30o ZY ഈ ഒരു സൂത്രവാക്യം നമ്മൾ ഇപ്പോ കണ്ടു പിടിച്ചതേ ഒള്ളു ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ Vab 210 ഈ Vab യും ZY യും പകരം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക 2 57 ആംഗിൾ 62o ആംപിയർ എന്നാണ് എങ്ങനെയെന്നാൽ ZY യും Vab തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് ലഘൂകരിക്കുമ്പോൾ നമുക്ക് കിട്ടുക 2 57 ആംഗിൾ 62o ആംപിയർ എന്നാണ് ഇനി Ib Ia ആംഗിൾ 120 o അതിനാൽ ഈ Ia മൂല്യം അതായത് 2 57 ആംഗിൾ 62o ഇവിടെ പകരം ചേർക്കുക അപ്പോൾ ഇത് 62 120 ആംഗിൾ 182o എന്നായിരിക്കും ഈ കറണ്ടിന്റെ അളവ് 2 57 ആംപിയർ എന്നായിട്ടാണ് പരാമർശിക്കുക സമാനമായി Ic Ia ആംഗിൾ 120o അപ്പോൾ ഇവിടെ അത് Ia 2 57 ആംഗിൾ 62 120 58 o ആംപിയർ എന്നായിരിക്കും അടുത്തത് ഒരു സന്തുലിതമായ സിസ്റ്റത്തിലെ പവർ ആണ് ഇവിടെ നമ്മൾ ലോഡ് ആഗിരണം ചെയ്യുന്ന ഇൻസ്റ്റന്റീനിയസ് പവർ പരിശോധിച്ചാണ് ആരംഭിക്കുന്നത് നമുക്ക് ത്രീ ഫേസ് പവറും കാണേണ്ടതുണ്ട് Y കണക്റ്റഡ് ലോഡിന് ഫേസ് വോൾട്ടേജുകൾ ഏതൊക്കെയാണെന്നാൽ ഇതൊരു Y കണക്റ്റഡ് ലോഡ് ആണെന്ന് കരുതുക ഇത് A ആണെന്നും ഇത് B ആണെന്നും ഇത് C ആണെന്നും വെക്കുക ഇത് N ആണ് അത് കൊണ്ടാണ് ഇത് VAN ആകുന്നത് ഇത് VAN ഇത് VBN ഇത് VCN എന്നിവയാണ് ഫേസ് വോൾട്ടേജ് Vp ആണ് ഇതാണ് ഇതിന്റെ അളവ് അതായത് rms മൂല്യം √ 2 ഗുണിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് പീക്ക് മൂല്യം എന്നതാണ് പിന്നെ കോസൈൻ പദവുമായും അവതരിപ്പിച്ചിട്ടുണ്ട് കോസൈനെ സൈനിലേക്കും മാറ്റാവുന്നതാണ് sin 90o cos അപ്പോൾ ഇതിനെ ഒരു കോസൈൻ പദമായിട്ടാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ മുമ്പേ സിംഗിൾ ഫേസ് സർക്യൂട്ടിന് v vm sin എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ vm എന്നതാണ് പീക്ക് മൂല്യം അതേ പോലെ vm √ 2 vrms എന്നും സിംഗിൾ ഫേസ് സർക്യൂട്ടിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇവിടെ സൈനിനു പകരം നമ്മൾ കോസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിലും അർഥം അത് തന്നെയാണ് അപ്പോൾ ഈ കേസിൽ പീക്ക് മൂല്യം എന്നത് √ 2 Vp ആണ് Vp എന്നത് ഫേസ് വോൾട്ടേജ് ആണ് പക്ഷെ അത് rms മൂല്യമാണ് അപ്പോൾ √ 2 കൊണ്ട് ഗുണിച്ചതാണ് പീക്ക് മൂല്യം ഇനി അടുത്തതിൽ ഇവിടെ t 120o ആണ് ഇത് മുമ്പത്തെ ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ പോലെ തന്നെയാണ് ഇനി VCN ന് ഇത് √ 2 Vp cos t 120o എന്നായിരിക്കും അപ്പോൾ ഇത് VAN VBN VCN എന്നിവയുടെ അവതരണമാണ് ഇവിടെ Vpmax √2 Vp അതായത് പീക്ക് മൂല്യം എന്നെഴുതിയിട്ടുണ്ട് ഇത് 120o അകലെയാണ് And Vp എന്നത് ഫേസ് വോൾട്ടേജാണ് പക്ഷെ അത് rms മൂല്യവുമാണ് അപ്പോൾ ഫേസ് വോൾട്ടേജ് rms മൂല്യമാണ് ഇനി ഇമ്പിടൻസ് ZY Z ആംഗിൾ ആണെങ്കിൽ ഫേസ് കറണ്ട് അവയ്ക്ക് അനുസൃതമായിട്ടുള്ള ഫേസ് വോൾട്ടേജുകളെഅളവിൽ ലാഗ് ചെയ്യുന്നു അപ്പോൾ Y കണക്റ്റഡ് ലോഡിന്റെ ഇമ്പിടൻസ് എന്നത് Z ആംഗിൾ ആണ് അത് സന്തുലിതമായതാണ് ഫേസ് കറണ്ട് അവയ്ക്ക് അനുസൃതമായിട്ടുള്ള ഫേസ് വോൾട്ടേജുകളെഅളവിൽ ലാഗ് ചെയ്യുന്നു അങ്ങനെയെങ്കിൽ Ia √ 2 Ip cos എന്നായിട്ടും എഴുതാം ഇവിടെ കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യും ഇവിടെയുള്ള വോൾട്ടേജ് t 120o എന്നിവയാണ് കറണ്ട് ഈ വോൾട്ടേജിൽ നിന്ന് ലാഗ് ചെയ്യും അതിനാൽ കറണ്ടിനെ Ia √ 2 Ip എന്നായിട്ടും അവതരിപ്പിക്കാം Ip എന്നത് കറണ്ടിന്റെ rms മൂല്യമാണ് അതായത് അത് ഫേസ് കറണ്ട് ആണ് അപ്പോൾ ഫേസ് മൂല്യത്തെ √ 2 കൊണ്ട് ഗണിക്കുന്നു ഇതാണ് പീക്ക് മൂല്യം അതിനാൽ Ia √ 2 Ip cos അപ്പോൾ ഇവിടെ ഇത് എഴുതിയിട്ടുണ്ട് Ip എന്നതാണ് ഫേസ് കറണ്ടിന്റെ rms മൂല്യം എന്നത് ഇനി Ib √ 2 Ip cos എന്നാണ് കാരണം ഇവിടെ 120o മാറുന്നുണ്ട് അതുപോലെ Ic √ 2 Ip cos t 120o വോൾട്ടേജുകൾക്ക് ഇവ cos cos cos t 120o എന്നിവയായിരുന്നു കാരണം ഇവിടെ കറണ്ട് ആംഗിൾ ലാഗ് ചെയ്യുന്നുണ്ട് അത് കൊണ്ടാണ് ഇവിടെ എന്നത് അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി ലോഡിലെ മൊത്തം ഇൻസ്റ്റന്റീനിയസ് പവർ മൂന്ന് ഫേസുകളിലുമുള്ള ഇൻസ്റ്റന്റീനിയസ് പവറുകളുടെ ആകെത്തുകയാണ് അതായത് p pa pb pc VAN Ia VBN Ib VCN ic ഇതിന്റെ സർക്യൂട്ട് വരക്കുകയാണെങ്കിൽ അത് ഇതുപോലെയിരിക്കും ഇത് Y കണക്റ്റഡ് ലോഡ് ആണെന്ന് കരുതുക ഇത് A ആണെന്നും ഇത് B എന്നും ഇത് C എന്നും വെക്കുക ഈ കറണ്ട് Ia ആണെന്നും ഈ കറണ്ട് Ib എന്നും ഈ കറണ്ട് ic എന്നും കരുതുക അപ്പോൾ ഇവിടെ ഇത് VAN Ia എന്നും അതുപോലെ ഇവിടെ ഇത് VBN Ib എന്നും ഈ ഫേസിന് ഇത് VCN Ic എന്നുമായിരിക്കും ഈ പോയന്റ് N ആണ് അത് കൊണ്ടാണ് ഇവിടെ നമ്മൾ VAN Ia VBN Ib VCN Ic എന്നും ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ ഈ Ia Ib Ic എന്നിവയും VAN VBN VCN എന്നിവയുടെ മൂല്യങ്ങൾ പകരം ചേർത്ത് ഇത് ലഘൂകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് p 2 Vp Ip cos cos cos cos cos t 120 o cos t 120o എന്നായിരിക്കും ഞാൻ ഇതിന്റെ അവസാനം ലഭിക്കുന്നതാണ് എഴുതിയിട്ടുള്ളത് നിങ്ങളിത് ചെയ്ത് നോക്കുക അതിനാൽ ട്രിഗണോമെട്രിക് സൂത്രവാക്യം ഇത് ലഘൂകരിക്കുകയാണെങ്കിൽ ഇത് p 3 Vp Ip cos എന്നാവും അതിനാൽ ഒരു സന്തുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തിൽ മൊത്തം ഇൻസ്റ്റന്റീനിയസ് പവർ സ്ഥായിയാണ് അതായത് ഇത് സമയത്തിനനുസരിച്ച് മാറുന്നതല്ല അത് സമയത്തിന്റെ ഒരു ഫംഗ്ഷൻ അല്ല ഓരോ ഫേസിലെയും ഇൻസ്റ്റന്റീനിയസ് പവർ മാറുന്നത് പോലെ ഇത് സമയത്തിനനുസരിച്ച് മാറുകയില്ല ത്രീ ഫേസിന് ഇത് ഒരുമിച്ച് ആക്കുകയാണെങ്കിൽ ഇത് 3 Vp Ip cos എന്നായിരിക്കും അതിനാൽ ഇത് സമയത്തിനെ ആശ്രയിക്കുന്നില്ല ത്രീ ഫേസ് സിസ്റ്റം ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഗുണങ്ങളിൽ ഒന്നാണിത് അതിനാൽ ലോഡ് Y കണക്റ്റഡോ അല്ലെങ്കിൽ Δ കണക്റ്റഡോ ആണെങ്കിലും ഈ 3 Vp Ip cos എന്ന ഫലം ശരിയാണ് അതിനാൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ത്രീ ഫേസ് സിസ്റ്റം ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉപകാരമാണിത് കാരണം ഈ പവർ സമയത്തെ ആശ്രയിക്കുന്നില്ല അപ്പോൾ അതിനർത്ഥം മൊത്തം ഇൻസ്റ്റന്റീനിയസ് പവർ സമയത്തെ ആശ്രയിക്കാത്തതിനാൽ Δ കണക്റ്റഡ് ലോഡിന്റെയോ Y കണക്റ്റഡ് ലോഡിന്റെയോ ഓരോ ഫേസിലെയും ശരാശരി പവർ Pp p3 ആയിരിക്കും കാരണം ഇതൊരു സന്തുലിതമായ സിസ്റ്റം ആണ് അതിനാൽ Pp p 3 ആണ് p എന്നത് 3 Vp Ip cos ആയിരുന്നു അതിനാൽ Pp എന്നത് Vp Ip cos ആയിരിക്കും അത്പോലെ ഓരോ ഫേസിലെയും റിയാക്ടീവ് പവർ Qp Vp Ip sin ആണ് അതിനാൽ ഓരോ ഫേസിലെയും അപാരന്റ് പവർ Sp Vp Ip ആണ് ഇവിടെ cos കൊണ്ടോ sin കൊണ്ടോ ഗുണിക്കുന്നില്ല വെറും Vp Ip അതിനാൽ ഓരോ ഫേസിലെയും കോംപ്ലക്സ് പവർ Pp jQp Vp Ip ഈ കാര്യം സിംഗിൾ ഫേസിനും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനാൽ മൊത്തം ശരാശരി പവർ P Pa Pb Pc 3 Pp 3 Vp Ip cos പക്ഷെ ഇതിനെ നമുക്ക് √ 3 VL IL cos ലോഡ് എന്നാക്കി എഴുതാവുന്നതാണ് ഒരു Y കണക്റ്റഡ് ലോഡിന് ലൈൻ കറണ്ട് ഫേസ് കറണ്ട് ആണ് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ കാര്യം മനസ്സിലുണ്ടായിരിക്കണം പക്ഷെ ഒരു Y കണക്റ്റഡ് ലോഡിന് ലൈൻ വോൾട്ടേജ് √ 3 തവണ ഫേസ് വോൾട്ടേജ് ആയിരിക്കും ഇതൊരു Y കണക്റ്റഡ് ലോഡ് ആണെന്ന് കരുതുക അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇതാണ് എന്റെ ലൈൻ കറണ്ട് ഇതേ കറണ്ട് തന്നെയാണ് ഈ ഫേസിലേക്കും പോകുന്നത് അപ്പോൾ ഇതാണ് എന്റെ ഫേസ് കറണ്ട് അതിനാൽ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് കൂടാതെ ഈ പോയിന്റ് N ആണ് ഇതാണ് a യും b യും c യും ഇതിനെ നമുക്ക് മാറ്റി n എന്നാക്കാം അതിനാൽ Van എന്നത് ഈ പോയിന്റ് ആണ് ഇതാണ് എൻറെ ഫേസ് വോൾട്ടേജ് പക്ഷെ Vp |Van| |Vbn| |Vcn| പക്ഷെ ലൈൻ ടു ലൈൻ വോൾട്ടേജ് ഇതാണ് അപ്പോൾ ഇതാണ് എന്റെ Vab അതിനാൽ |Vab| √3 തവണ ഫേസ് വോൾട്ടേജ് അതായത് √ 3 Van പക്ഷെ Van Vp ആണ് അപ്പോൾ ഇത് √ 3 Vp എന്നാവും അതിനാൽ ലൈൻ വോൾട്ടേജ് √ 3 ഫേസ് വോൾട്ടേജ് അത് കൊണ്ടാണ് ഒരു Y കണക്റ്റഡ് ലോഡിന് I L Ip എന്നും VL √ 3 Vp എഴുതാനാവുന്നത് അതിനർത്ഥം ഇത് യഥാർത്ഥത്തിൽ 3 Vp I p cos എന്നാണ് ഇതിനെ നമുക്ക് √ 3 Ip cos എന്നായി എഴുതാം അതിനാൽ √ 3 ഇവിടെയുണ്ടാകും √ 3 Vp ലൈൻ വോൾട്ടേജ് VL ആണ് കൂടാതെ ഈ Ip I L ആണ് കാരണം Y കണക്റ്റഡ് ലോഡിൽ ഫേസ് കറണ്ട് ലൈൻ കറണ്ട് ആണ് അപ്പോൾ അത് IL ഉം കൂടെ cos യും അപ്പോൾ ഈ പദം √ 3 VL IL cos ആണ് അതിനാൽ ഇതൊരു Y കണക്റ്റഡ് ലോഡിന്റെ കാര്യമാണ് സമാനമായി ഒരു Δ കണക്റ്റഡ് ലോഡിന് നേർ വിപരീതമാണ് അത് ഇത് പോലെ ചെയ്യാവുന്നതാണ് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല ലൈൻ കറണ്ട് √ 3തവണ ഫേസ് കറണ്ട് പക്ഷെ VL Vp ആണ് അപ്പോൾ ഇതാണ് എന്റെ Δ കണക്റ്റഡ് ലോഡ് ഇതാണ് ഫേസ് a ഇതാണ് ഫേസ് b ഇതാണ് ഫേസ് c ഇത് a യും ഇത് b യും ഇത് c യും ആണെന്ന് വെക്കുക ഇവിടെ N പോയന്റ് ഒന്നുമില്ല അപ്പോൾ ഇത് സന്തുലിതമാണ് ഇതാണ് അളവ് വെച്ച് ഇവിടുത്തെ ലൈൻ കറണ്ട് അളവ് വെച്ച് ഇതാണ് എന്റെ ഫേസ് കറണ്ട് Ip ഈ കേസിൽ ഇവിടെ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് ആണ് ഉദാഹരണത്തിന് ഇതിനകത്തൂടെ ഉള്ള വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ Van ഇതും Δ കണക്റ്റഡ് ലോഡ് ആണ് ഇതാണ് Vab ഇത് ഫേസ് വോൾട്ടേജിന് തുല്യമായ ലൈൻ വോൾട്ടേജ് ആണ് അതിനാൽ ഇത് VabVp എന്നാണ് സമാനമായി Vbc Vp എല്ലാം ഫേസ് വോൾട്ടേജിന് തുല്യമാണ് പക്ഷെ ഇവിടെ ഫേസ് കറണ്ട് നൽകിയിട്ടുണ്ട് ഇത് ലൈൻ കറണ്ടുമാണ് അതിനാൽ ലൈൻ കറണ്ട് √ 3 തവണ ഫേസ് കറണ്ട് ഇത് നമ്മൾ മുമ്പും കണ്ടതാണ് സമാനമായ രീതിയിൽ Δ കണക്റ്റഡ് ലോഡിന് IL √ 3 Ip എന്നും VL Vp എന്നുമായിരിക്കും ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും ഇത് ന്യൂമറിക്കൽ വീക്ഷണത്തിൽ മനസ്സിൽ വെക്കേണ്ടതുണ്ട് അത് പോലെ മൊത്തം റിയാക്ടീവ് പവർ Q √ 3 VL IL sin എന്നാണ് അതിനാൽ ടോട്ടൽ കോംപ്ലക്സ് പവർ ത്രീ ഫേസിലായതിനാൽ 3 എന്നുമാകും അപ്പോൾ ഇത് 3 Vp Vp Zp എന്നാകും Vp × Vp എന്നത് Vp2 എന്നാണ് കാരണം ഉദാഹരണത്തിന് Vp Vp ആംഗിൾ എന്നാണെങ്കിൽ എങ്കിൽ Vp എന്നത് Vp ആംഗിൾ എന്നായിരിക്കും ഇത് ഗുണിക്കുകയാണെങ്കിൽ Vp യും Vp യും കൂടി Vp2 എന്നും ഇത് എന്നുമായിരിക്കും അപ്പോൾ ആംഗിൾ 0 ആയിരിക്കും അപ്പോൾ ഇത് Vp2 എന്ന് മാത്രമായിരിക്കും അത് കൊണ്ടാണ് ഇവിടെ 3 Vp2 എന്നാവുന്നത് ഇവിടെ ഇത് മൊത്തം കോഞ്ചുഗേറ്റ് ആയതിനാൽ ഇത് Vp Zp എന്നാകും അപ്പോൾ ഇത് Zp ആണ് Zp Zp ആംഗിൾ ആണെങ്കിൽ Zp Zp ആംഗിൾ എന്നായിരിക്കും അതിനാൽ ഇമ്പിടൻസ് പെർ ഫേസ് Zp ZY അല്ലെങ്കിൽ Zp ZΔ എന്നാണ് അപ്പോൾ ഇത് 3 Vp 2 Zp എന്നാണ് അതിനാൽ നമുക്ക് ഇനി P jQ എന്നതിനെ P jQ √ 3 VL I L ആംഗിൾഎന്നായിട്ടെഴുതാം ഇത് ചെയ്യുകയാണെങ്കിൽ √ 3 VL I L cos j √ 3 VL I L sin എന്നാകും അതിനാൽ P √ 3 VL I L cos എന്നും Q √ 3 VL I L sin എന്നും ലഭിക്കും അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം മറ്റൊരു കാര്യം ഊർജ്ജ വിതരണത്തിനായുള്ള ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ പ്രധാന ഗുണമെന്തെന്നാൽ ഒരേ ലൈൻ വോൾട്ടേജ് VL ലും ഒരേ ആഗിരണം ചെയ്യപ്പെടുന്ന പവർ PL ലും സിംഗിൾ ഫേസ് സിസ്റ്റത്തേക്കാൾ കുറഞ്ഞ അളവിലുള്ള വയർ ത്രീ ഫേസ് സിസ്റ്റം ഉപയോഗിക്കുന്നു എന്നതാണ് അപ്പോൾ ഇതാണ് മറ്റൊരു പ്രധാന കാര്യം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുകയെന്നാൽ ഇവിടെ നമ്മൾ ഈ കേസുകൾ താരതമ്യം ചെയ്യും രണ്ട് കേസുകളിലും അതായത് സിംഗിൾ ഫേസ് ആണെങ്കിലും ത്രീ ഫേസ് ആണെങ്കിലും വയറുകൾ ഒരേ പദാർത്ഥം കൊണ്ടാണെന്ന് അനുമാനിക്കും ഉദാഹരണത്തിന് ഒരു സിംഗിൾ ഫേസ് സ്രോതസ്സ് എടുക്കുകയാണെങ്കിൽ ഇത് അകത്തേക്ക് വരുന്ന പാതയാണെന്നും ഇത് മടങ്ങുന്ന പാതയാണെന്നും കരുതുക ഇവിടെ റെസിസ്റ്റൻസ് R ഉം R ഉം ആണ് അപ്പോൾ ഇത് 2 R ആയിരിക്കും ഇനി നമ്മുടെ എളുപ്പത്തിലുള്ള കണക്കുകൂട്ടലുകൾക്കായി വിശദീകരണത്തിനായി കണക്റ്റു ചെയ്തിരിക്കുന്ന ലോഡാണിത് ഈ ലോഡ് പൂർണ്ണമായും റെസിസ്റ്റീവ് ലോഡാണ് ലോഡ് പൂർണ്ണമായും റെസിസ്റ്റീവ് ആണെങ്കിൽ അത് യൂണിറ്റി പവർ ഫാക്ടർ ലോഡ് ആയിരിക്കും കാരണം Z R j X ആണ് അതിൽ X 0 ആവുമ്പോൾ ഇത് പൂർണ്ണമായും റെസിസ്റ്റീവ് ലോഡായിരിക്കും ഈ ലോഡിൽ VL ആണ് ലോഡ് വോൾട്ടേജ് അപ്പോൾ ഇത് ഒരു ടു വയർ സിംഗിൾ ഫേസ് സിസ്റ്റം ആണ് ഇത് അകത്തേക്ക് വരുന്ന പാതയും ഇത് മടങ്ങുന്ന പാതയുമാണ് ഇവിടുത്തെ റസിസ്റ്റൻസ് R ആണ് ഒരേ വയർ ആയതിനാൽ ഇവിടെയും R ആവും അപ്പോൾ ഇത് ഫിഗർ 22 ആണ് ഇനി ഇവിടെയുള്ള ഈ ത്രീ ഫേസ് സിസ്റ്റത്തിന് ഇവിടെ റസിസ്റ്റൻസ് R R R ആണ് മൂന്ന് ലൈനുകളുണ്ട് ഫേസ് a യും b യും c യും ഈ വശത്തുള്ളത് സന്തുലിതമായ ത്രീ ഫേസ് സ്രോതസ്സാണ് ഇവിടെയുള്ളത് സന്തുലിതമായ ത്രീ ഫേസ് ലോഡുമാണ് അത് പോലെ ഇവിടെ ഇത് Y ആണെങ്കിലും Δ ആണെങ്കിലും കുഴപ്പമില്ല ഇതൊരു പൂർണ്ണമായും രസിസിസ്റ്റീവായ ലോഡ് ആണെന്ന് വെക്കുക അതിനാൽ ലോഡിന്റെ പവർ ഫാക്ടറി യൂണിറ്റിയാണ് ഇവിടെ ഈ വശത്തെ വോൾട്ടേജ് Vab ആണ് ഇത് R ആണ് ഇതിന്റെ കുറച്ച് വോൾട്ടേജ് ഈ ഫേസിലുണ്ടാകും ഈ ലോഡിൽ ലൈൻ ടു ലൈൻ വോൾട്ടേജ് VL ആംഗിൾ 0o യും ഇവിടെ b യിൽ നിന്ന് c യിലേക്ക് VL ആംഗിൾ 120o യുമാണ് ഇത് എഴുതുമ്പോൾ ഇവിടെയുള്ള ഉം ഈ ഉം ഇൻസ്റ്റന്റീനിയസ് പൊളാരിറ്റി ആണ് അതായത് Vab VL ആംഗിൾ 0o എന്നും Vbc VL ആംഗിൾ 120o എന്നുമാണ് ഇത് a യിൽ നിന്ന് b യിലേക്കാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെ ആയതിനാൽ അത് പോലെ ഈ ലൈനിലെ നഷ്ടം പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ Vab VL ആംഗിൾ 0o Vbc എന്നാകും പക്ഷെ ഇവിടെ കറണ്ട് ഒഴുകുന്നതിനാൽ ഇതാണ് Ia ഇവിടെ ഒരു വോൾട്ടേജ് കുറവ് ഉണ്ടാകും ഇവിടെ VL എന്തു തന്നെയാണെങ്കിലും അത് a b യേക്കാൾ കുറച്ച് കുറഞ്ഞതായിരിക്കും അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ഈ കേസിൽ Vab അല്ലെങ്കിൽ Vbc യുടെ അളവ് VL ന് കിറുകൃത്യമായിരിക്കില്ല കാരണം ഇവിടെ ഈ R റസിസ്റ്റൻസിൽ കുറച്ച് വോൾട്ടേജ് കുറവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ടതില്ല ത്രീ ഫേസ് സിംഗിൾ ഫേസിനേക്കാൾ കുറഞ്ഞ പദാർത്ഥം എടുക്കുന്നൊള്ളൂവെന്ന് നമ്മൾ കാണിക്കും ഇനി രണ്ട് വയറുകളുള്ള സിംഗിൾ ഫേസ് സിസ്റ്റമാണെങ്കിൽ അതായത് ഫിഗർ 22 ലുള്ളതിന് IL PL VL എന്നായിരിക്കും അതിനാൽ അതൊരു റസിസ്റ്റീവ് ലോഡ് ആണ് ഈ റസിസ്റ്റീവ് ലോഡിലെ പവർ PL ആണെങ്കിൽ IL PL VL എന്നായിരിക്കും ഇത് AC സിംഗിൾ ഫേസ് സിസ്റ്റം ആണ് ഇതിന്റെ VL ആംഗിൾ 0 എടുക്കുകയാണെങ്കിലും ഇത് VL മാത്രമായിരിക്കും മാത്രമല്ല ഇത് റസിസ്റ്റീവ് ആണ് അതിനാൽ Q ഉണ്ടാകില്ല അപ്പോൾ IL PL VL എന്നായിരിക്കും ഈ കറണ്ട് IL ആണ് പവർ ലോസ് എന്നത് IL2 VL എന്ന് ലഭിക്കും ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിനാൽ 2 R × PL2 VL2 ഇതാണ് സമവാക്യം 1 ഇനി മൂന്ന് വയറുകളുള്ള ത്രീ ഫേസ് സിസ്റ്റത്തിന് IL |Ia| |Ib| |Ic| PL√ 3VL ആണ് കാരണം അത് യൂണിറ്റി പവർ ഫാക്ടർ ലോഡ് ആണ് അതിനാൽ √ 3VL കൂടെ ഇവിടെ കറണ്ട് IL ആണ് കാരണം സിംഗിൾ ഫേസിന് IL എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ILആകുന്നു അപ്പോൾ √ 3VL IL cos PL ഇതാണ് സൂത്രവാക്യം ഇനി ഇവിടെ cos യൂണിറ്റി കാരണം ഇത് റസിസ്റ്റീവ് ലോഡ് ആണ് അതിനാൽ IL PL √ 3 VL എന്നാണ് ഇനി മൂന്ന് വയറുകളിലേയും പവർ ലോസ് Ploss ഇവിടെ മൂന്ന് ലൈനുകളുള്ളത് കൊണ്ട് 3R × PL2 3 VL2 അപ്പോൾ 3 ഉം 3 ഉം വെട്ടി പോകും അപ്പോൾ ഇത് R × PL2 VL2 എന്നാകും ഇതാണ് സമവാക്യം 2 ഇനി സമവാക്യം 1 നെ സമവാക്യം 2 നെ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് PLoss PLoss 2 R R എന്ന് ലഭിക്കും ഇവിടെ രണ്ട് കേസുകളിലും വയറ് ഒരേ പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിനാൽ ആദ്യത്തെ സിംഗിൾ ഫേസിന്റെ കേസിൽ R ⍴ l 𝜋 r2 ഇവിടെ ഈ സിംഗിൾ ഫേസിന്റെ കണ്ടക്റ്ററിന്റെ റേഡിയസ് r ആണെന്ന് വെക്കാം അപ്പോൾ ഇത് ⍴l 𝜋 r2 സമാനമായി ത്രീ ഫേസിന്റെ കേസിൽ R ⍴ l 𝜋 2 r2 എന്നാണ് ഇതാണ് സമവാക്യം 3 ഇനി ഈ രണ്ട് സിസ്റ്റങ്ങളിലും തുല്യ പവർ നഷ്ടം സഹിക്കുകയാണെങ്കിൽ അതായത് PLoss PLoss ആണെങ്കിൽ അപ്പോൾ r 2 2 2 2 എന്നാകും ഇത് സമവാക്യം 4 ആണ് ഇനി സിംഗിൾ ഫേസിനുള്ള പദാർത്ഥം ഹരിക്കണം ത്രീ ഫേസിനുള്ള പദാർത്ഥം എന്നതായിരിക്കും ഇതിന്റെ വോളിയം എന്നതായിരിക്കും വോളിയം

ഇനി ത്രീ ഫേസിന്റെ പദാർത്ഥം മൂന്ന് വയറുകളായതിനാൽ 3 × ത്രീ ഫേസിന്റെ പദാർത്ഥമാണ് അതിനാൽ ഒരേ പവർ ലോസിൽ സിംഗിൾ ഫേസിലെ കണ്ടക്ടറിന്റെ വോളിയം ത്രീ ഫേസിന്റേതിനേക്കാൾ 33 3 ശതമാനം കൂടുതലാണ് അത് കൊണ്ടാണ് ത്രീ ഫേസ് വയറുകൾ കൂടുതൽ ഗുണകരമാകുന്നത് ഇനി ഒരു ഉദാഹരണം നോക്കാം രണ്ടാമത്തെ ഉദാഹരണം നോക്കുക ഇതിന്റെ മൊത്തം ശരാശരി പവറും റിയാക്ടീവ് പവറും കോംപ്ലക്സ് പവറും സ്രോതസ്സിലും ലോഡിലും നിർണ്ണയിക്കുക അപ്പോൾ നിങ്ങൾ ഉദാഹരണം 2 ലേക്ക് ഒന്ന് മടങ്ങി പോകുക അതിനാൽ ഇവിടെ ഈ കേസിൽ സിസ്റ്റം സന്തുലിതമാണ് സിംഗിൾ ഫേസ് പരിഗണിക്കാൻ ഉതകുന്നതാണ് ഇവിടെ ഫേസ് a യിൽ ഫേസ് വോൾട്ടേജ് Vp Van 110 ആംഗിൾ 0° എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട് അത് പോലെ ഇവിടുത്തെ ഫേസ് കറണ്ട് Ip ലൈൻ കറണ്ട് Ia 6 81 ആംഗിൾ 21 ഇവിടെ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി സ്രോതസ്സിൽ Ss 3 Vp Ip ആണ് ത്രീ ഫേസ് സിസ്റ്റം ആയതിനാലാണ് Vp Ip × 3 ആയത് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതാണ് Vp ഇതാണ് Ip Ip 6 81 ആണ് അതിനാൽ Ip 6 8o ആണ് അപ്പോൾ ഇത് 3 Vp Ip വോൾട്ട് ആംപിയർ ലോഡായിരിക്കും ഇത് ചെയ്യുമ്പോൾ ഇതായിരിക്കും വാട്ട് അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇത് വാട്ട് വാർ എന്നതാണ് വോൾട്ട് ആംപിയർ ആകുന്നത് ഉദാഹരണത്തിന് P 30 watt ആണെന്നും Q 20 VAr ആണെന്നും കരുതുക പക്ഷെ ഇത് ഈ രീതിയിൽ എഴുതുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും P jQ 30 j 20 ഇത് വോൾട്ട് ആംപിയറിലായിരിക്കും ഇത് ഈ രീതിയിൽ എഴുതുമ്പോൾ അതായത് P jQ രൂപത്തിൽ എഴുതുമ്പോൾ ഇത് വോൾട്ട് ആംപിയർ ആയിരിക്കും പക്ഷെ ഇത് ആണ് ഇത് വാർ ആണ് ഇതിന്റെ അളവ് എടുക്കുമ്പോൾ ഇത് വോൾട്ട് ആംപിയറിലായിരിക്കും അത് കൊണ്ടാണ് VA എന്നായത് അപ്പോൾ ഈ കേസിൽ യഥാർത്ഥത്തിൽ വിതരണം ചെയ്ത പവർ 2087 watt ആണ് അത് പോലെ റിയാക്ടീവ് പവർ 834 6 VAr ആണ് ഇനി ഉദാഹരണം 2 നോക്കൂ ഇത് വളരെ എളുപ്പമാണ് എല്ലാ വിവരങ്ങളും തന്നിട്ടുണ്ട് ലോഡിൽ ആഗിരണം ചെയ്ത കോംപ്ലക്സ് പവർ SLOAD 3 Ip 2 × Zp എന്നാണ് ഇതൊരു സന്തുലിതമായ സിസ്റ്റമാണ് അതിനാൽ ഓരോ ഫേസിലെയും Ip2 Zp × 3 ഇവിടെ Zp തന്നിട്ടുള്ളത് VA എന്നായി എഴുതാം അപ്പോൾ ഈ കേസിൽ ആഗിരണം ചെയ്ത യഥാർത്ഥ പവർ 1392 watt ആണ് അത് പോലെ റിയാക്ടീവ് പവർ 1113 VAr ആണ് ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ വോൾട്ട് ആംപിയറിലായിരിക്കും ഇത് വാട്ട് ആണ് ഇത് വാർ ആണ് അതിനാൽ രണ്ട് കോംപ്ലക്സ് പവറുകളുടെ വ്യത്യാസം എന്നത് ലൈൻ ഇമ്പിടൻസ് ആഗിരണം ചെയ്ത പവർ ആണ് അതായത് പവർ ലോസ് ആണ് അതിനാൽ ലൈൻ ആഗിരണം ചെയ്ത പവർ 3 × ഇത് 695 6 j 278 3 എന്നായിരിക്കും ഇത് ആണെങ്കിൽ അതിനർത്ഥം ഈ ഇമ്പിടൻസ് കപ്പാസിറ്റീവ് ആണെന്നാണ് അതിനാൽ ലൈൻ ആഗിരണം ചെയ്ത യഥാർത്ഥ പവർ 695 6 ആണ് കൂടാതെ ലൈൻ ആഗിരണം ചെയ്ത റിയാക്ടീവ് പവർ 278 3 VAr ആണ് അടുത്തത് സന്തുലിതമല്ലാത്ത ത്രീ ഫേസ് സിസ്റ്റം ആണ് ഞാൻ ഇതിന്റെ ഒന്ന് രണ്ട് പേജ് പറയാം ഈ ലോഡിന്റെ ഈ ആംഗിളുകളെല്ലാം വ്യത്യസ്തമാണെന്ന് വെക്കുക ZA ZB ZC അതുപോലെ ഈ വോൾട്ടേജുകൾ Vab Vbc Vca എന്നിവയും വ്യത്യസ്തമാവാം ഇതിലൊന്ന് ചെറിയ രീതിയിൽ വ്യത്യസ്തമാണെങ്കിൽ ഇത് അസന്തുലിതമായ സിസ്റ്റം ആണ് അതിനാൽ അസന്തുലിതമായ സിസ്റ്റത്തിന്റെ കേസിൽ Ia എന്നത് കറണ്ട് ആണ് ഇവിടെ Ia ഈ ഫേസിലേക്കാണ് പോകുന്നത് സമാനമായി ഇവിടേക്ക് അത് Ib യും ഇവിടേക്ക് Ic യുമാണ് ഇത് ന്യൂട്രൽ പോയിന്റ് N ആണ് ഇത് ZA ZB ZC എന്നിവയും ഇവ ഫേസ് വോൾട്ടേജുകളായ VAN VBN VCN എന്നിവയുമാണ് അസന്തുലിതമായ സിസ്റ്റം ആയതിനാൽ ഫേസ് വോൾട്ടേജും അസന്തുലിതമായിരിക്കാം അതിനാൽ Ia VAN ZA Ib VBN ZB ഇത് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആയതിനാൽ Ic VCN ZC ഇനി KCL പ്രയോഗിക്കുകയാണെങ്കിൽ In Ia Ib Ic 0 എന്ന് കിട്ടും In Ia Ib Ic അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതായത് ഇനി ഇത് അസന്തുലിതമാണെങ്കിൽ In 0 ആയിരിക്കില്ല അതിനാൽ അസന്തുലിതമായ സിസ്റ്റത്തെ കുറിച്ചുള്ള കുറച്ച് ആശയങ്ങളാണ് ഇതെല്ലാം നമുക്ക് വീണ്ടും കാണാം വളരെയധികം നന്ദി